പവർ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ പവർ ഗെയിൻ ലഭിക്കുന്നതിന് നമുക്ക് ഒരു നോൺ ലീനിയർ സർക്യൂട്ട് വേണമെന്നും ഒരു അധിക സോഴ്സ്സും ആവശ്യമാണെന്നും ഞങ്ങൾ മുമ്പ് കണ്ടു കാരണം എല്ലാ ഘടകങ്ങളും നിഷ്ക്രിയമാണ് നിങ്ങൾക്ക് സിഗ്നൽ പവർ നൽകുന്ന ഒരൊറ്റ ഉറവിടം മാത്രമേ ഉള്ളൂവെങ്കിൽ എന്താണ് പുറത്തുവരുന്നത് പുറത്തുവരുന്ന പവർ ഇൻപുട്ട് സിഗ്നൽ പവറിനേക്കാൾ ചെറുതായിരിക്കും അതിനാൽ നമുക്ക് ഒരു നോൺ ലീനിയർ ഉപകരണവും രണ്ട് ഉറവിടങ്ങളും ഉണ്ടായിരിക്കണം ഒന്ന് ആവശ്യമുള്ള സിഗ്നലുകൾ നൽകുന്ന ഉറവിടമാണ് മറ്റൊന്ന് ഒരു തരം പവർ സപ്ലൈ ആണ് ഇത് സാധാരണയായി ഒരു ഡിസി ഉറവിടമാണ് എങ്ങനെയെങ്കിലും ഡിസി ഉറവിടത്തിൽ നിന്ന് എടുക്കുന്ന കുറച്ച് പവർ സിഗ്നലിന്റെ രൂപത്തിൽ ഉപയോഗപ്രദമായ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യും അങ്ങനെയാണ് നമുക്ക് വൈദ്യുതിയോർജ്ജം ലഭിക്കുന്നത് ഇപ്പോൾ ആംപ്ലിഫയർ ഉപകരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുമുമ്പ് നോൺലീനിയർ സർക്യൂട്ടുകൾ എങ്ങനെ വിശകലനം ചെയ്യാമെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് കാരണം ഇത് സാധാരണയായി അടിസ്ഥാന സർക്യൂട്ട് ക്ലാസുകളിൽ പഠിപ്പിക്കുന്നതല്ല അതിനാൽ ഞങ്ങൾ ഘട്ടം ഘട്ടമായി പോകും ലീനിയർ സർക്യൂട്ടുകളുടെ വിശകലനം ലീനിയർ സർക്യൂട്ടുകൾ പോലെ എളുപ്പമല്ല പക്ഷേ നമുക്ക് ചില ഏകദേശങ്ങൾ നടത്താനും നോൺലീനിയർ സർക്യൂട്ടുകൾ വിശകലനം ചെയ്യുന്നതിലൂടെ കുറച്ച് പുരോഗതി നേടാനും കഴിയും ഇപ്പോൾ ഒടുവിൽ ഞങ്ങൾക്ക് രണ്ട് പോർട്ട് ഘടകങ്ങൾ ഉണ്ടായിരിക്കണം അത് നിങ്ങൾക്ക് ഒരു വശത്ത് നിന്ന് ഒരു ഇൻപുട്ട് നൽകാനും മറുവശത്ത് നിന്ന് ഔട്ട്പുട്ട് എടുക്കാനും കഴിയുന്ന ഒരു ഘടകമാണ് എന്നാൽ നമുക്ക് ഇതുവരെ നോൺലീനിയർ സർക്യൂട്ടുകൾ പരിചിതമല്ലാത്തതിനാൽ ഞങ്ങൾ ആദ്യം നോൺലീനിയർ വൺ പോർട്ട് പരിഗണിക്കും തുടർന്ന് നോൺലീനിയർ ടു പോർട്ടുകളിലേക്ക് പോകും എന്നാൽ നോൺലീനിയർ വൺ പോർട്ട് ഉപയോഗിച്ച് കാണിക്കുന്ന പൊതു വിശകലന രീതി നോൺലീനിയർ ടു പോർട്ടുകൾക്കും ബാധകമായിരിക്കും ഇപ്പോൾ ഇതുപോലുള്ള ഒരു പൊതു നോൺലീനിയർ വൺ പോർട്ടിനെ ഞാൻ പ്രതിനിധീകരിക്കും അതിന് കുറുകെ വോൾട്ടേജ് V ഉണ്ടെങ്കിൽ അതിന് അതിലൂടെ ഒരു നിശ്ചിത കറന്റ് I ഉണ്ടായിരിക്കും ഈ f രേഖീയമല്ലാത്തിടത്ത് അത് V യുടെ ചില ഫംഗ്ഷനായിരിക്കും തീർച്ചയായും റെസിസ്റ്ററിന്റെ കാര്യത്തിൽ അത് ലീനിയറാണെങ്കിൽ നമുക്ക് സമാനമായ ഒരു ബന്ധമുണ്ട് അവിടെ IG തവണ V ആണ് അവിടെ G ആണ് ചാലകത അതിനാൽ ഒറ്റ സംഖ്യയുടെ ചാലകത റെസിസ്റ്ററിനെ വിവരിക്കുന്നു രേഖീയമല്ലാത്ത മൂലകമാണെങ്കിൽ f ഫംഗ്ഷൻ രേഖീയമല്ലാത്ത ഘടകത്തെ വിവരിക്കുന്നു ഇപ്പോൾ തീർച്ചയായും നമുക്ക് പൊതുവായ ഒരു നോൺ ലീനിയർ ഘടകത്തെക്കുറിച്ച് അമൂർത്തമായ രീതിയിൽ സംസാരിക്കാം എന്നാൽ ഡയോഡ് എന്ന വളരെ പതിവായി ഉപയോഗിക്കുന്ന ഒരു പോർട്ട് നോൺലീനിയർ ഘടകത്തെക്കുറിച്ച് പഠിക്കുന്നതും ഉപയോഗപ്രദമാണ് അതിനാൽ ഇതിലുടനീളമുള്ള വോൾട്ടേജ് VD ആണെങ്കിൽ അതിലൂടെയുള്ള കറന്റ് ID ഏതെങ്കിലും നോൺലീനിയർ ഫംഗ്ഷൻ നൽകും ഒരു നിമിഷത്തിനുള്ളിൽ ഞാൻ അത് കാണിക്കാൻ പോകുന്നു പക്ഷേ എനിക്ക് കാണിക്കേണ്ട ഒരു കാര്യം ഡയോഡിനെ ഇതുപോലെയുള്ള ഒരു ചിഹ്നത്താൽ പ്രതിനിധീകരിക്കുന്നു അത് അസമമിതിയാണ് അതിനാൽ ഈ വശം ആനോഡ് അല്ലെങ്കിൽ പ്ലസ് ടെർമിനൽ എന്നും ആ വശം കാഥോഡ് എന്നും അറിയപ്പെടുന്നു സ്വഭാവം വിവരിക്കുമ്പോൾ ആനോഡ് പോസിറ്റീവ് ആയതിനാൽ ഈ VD നിർവചിക്കപ്പെടുന്നു കൂടാതെ ആനോഡിലേക്ക് പോകുന്ന കറന്റ് ഉപയോഗിച്ച് ID നിർവചിക്കപ്പെടുന്നു അതിനാൽ അതാണ് സാധാരണ നിഷ്ക്രിയ ചിഹ്ന കൺവെൻഷൻ അതിനാൽ ഈ ധ്രുവതയോടെ ഈ ID IS ഇപ്പോൾ ഈ IS നെ സാച്ചുറേഷൻ കറന്റ് എന്ന് വിളിക്കുന്നു ഇത് ഡയോഡിന്റെ ചില പ്രോപ്പർട്ടി ആണ് ഇത് റെസിസ്റ്ററിന്റെ ചാലകതയോട് സാമ്യമുള്ളതാണ് അതിനാൽ നിങ്ങൾക്ക് വ്യത്യസ്ത ചാലകതകളുള്ള ഒരു റെസിസ്റ്റർ ഉണ്ടായിരിക്കാം അതുപോലെ നിങ്ങൾക്ക് വ്യത്യസ്ത സാച്ചുറേഷൻ കറന്റുകളുള്ള ഡയോഡുകൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു ഓം റെസിസ്റ്ററോ ഒരു മെഗാ ഓം റെസിസ്റ്ററോ ഉള്ളതുപോലെ സാച്ചുറേഷൻ കറന്റ് വ്യാപകമായി വ്യത്യാസപ്പെടാം എന്നാൽ ഇത് 10 15 A എന്ന വളരെ ചെറിയ സംഖ്യയായിരിക്കുമെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകുന്ന ചില മൂല്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഇവിടെ മറ്റൊരു കോൺസ്റ്റന്റ് ഉണ്ട് അത് Vt ആണ് ഇത് യഥാർത്ഥത്തിൽ ഡയോഡിന്റെ ഒരു പ്രോപ്പർട്ടി അല്ല എന്നാൽ ഇത് അടിസ്ഥാന സ്ഥിരാങ്കമാണ് ഇത് kTq ആണ് നൽകുന്നത് ഇവിടെ k എന്നത് ബോൾട്ട്സ്മാന്റെ കോൺസ്റ്റന്റ് ആണ് Boltzmann's constant നിങ്ങൾക്ക് ഇതും T ഉം പരിചിതമായിരിക്കും കേവല താപനിലയും q തീർച്ചയായും ഇലക്ട്രോൺ ചാർജ് ആണ് ഈ സംഖ്യ kTq ഇത് തെർമൽ വോൾട്ടേജ് എന്നറിയപ്പെടുന്നു വ്യക്തമായും ഇതിന് വോൾട്ടുകളുടെ അളവുകൾ ഉണ്ട് ഇവിടെ അളവുകൾ സന്തുലിതമാക്കാൻ ഇത് അങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ കാണുന്നു കാരണം VD വോൾട്ടാണ് Vt യും വോൾട്ടിൽ ആയിരിക്കണം അതുവഴി ഈ എക്സ്പോണൻഷ്യലിന്റെ വാദം അളവില്ലാത്തതാകും ഇപ്പോൾ തീർച്ചയായും ഇത് കേവല ഊഷ്മാവിന് നേരിട്ട് ആനുപാതികമായ ഒന്നുണ്ട് ഊഷ്മാവിൽ ഈ Vt kTq ആണെന്നും ഇത് 25 9 mv ന് തുല്യമാണെന്നും ഇത് മാറുന്നു ഞങ്ങൾ ഇത് പലപ്പോഴും വെറും 25 mv ഉപയോഗിച്ച് ഏകദേശം കണക്കാക്കും അതിനാൽ ഇത് ഓർമ്മിക്കേണ്ടതാണ് ഊഷ്മാവിൽ താപ വോൾട്ടേജ് Vt 25 mv ആണ് അതിനാൽ ചിലപ്പോൾ ഇത് 26 ആയി കണക്കാക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ 25 9 ഉപയോഗിക്കുന്നു എന്നാൽ ഇത് 25 mv മതിയാകും അപ്പോൾ ഈ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഏതൊരു ഘടകത്തിനും സാധാരണ പോലെ നമുക്ക് സ്വഭാവ സവിശേഷതയായ ID vs VD ചിത്രീകരിക്കാനും കഴിയും ID IS ആണെന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് ചില നോൺ ലീനിയർ കർവ് ആണ് എന്നാൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഒന്നാമതായി VD വളരെ നെഗറ്റീവ് ആയിരിക്കുമ്പോൾ VDVt വലിയ നെഗറ്റീവ് സംഖ്യയാണ് വലിയ നെഗറ്റീവ് സംഖ്യയുടെ ഈ എക്സ്പോണൻഷ്യൽ പൂജ്യത്തിനടുത്താണ് തീർച്ചയായും അത് ഒരിക്കലും കൃത്യമായി പൂജ്യമായിരിക്കില്ല പക്ഷേ അത് വളരെ ചെറുതായിരിക്കും അതിനാൽ ഈ പരാൻതീസിസിൽ നിങ്ങൾക്ക് മൈനസ് 1 മാത്രമായിരിക്കും അതിനാൽ VD യുടെ നെഗറ്റീവ് മൂല്യമായ VD എന്നത് Vt യെക്കാൾ കൂടുതൽ ആയിരിക്കും കൂടാതെ അപ്പോൾ ID എന്നത് ഏകദേശം IS ആയിരിക്കും അതിനാൽ ഞാൻ ഇവിടെ പറയുന്നത് VD വലുതും നെഗറ്റീവുമാണ് അതിനാൽ ID ഏകദേശം IS അതിനർത്ഥം VD വലുതും നെഗറ്റീവും ആയിരിക്കുമ്പോൾ ID ഇതുപോലെയായിരിക്കും എന്നാണ് ഈ നമ്പർ IS ആണ് അതിനാൽ അതിന്റെ അർത്ഥം ഈ മേഖലയിൽ VD നെഗറ്റീവ് ആയിരിക്കുമ്പോൾ ആ പ്രദേശത്തെ റിവേഴ്സ് ബയസ് എന്ന് വിളിക്കുന്നു കറന്റ് ഏതാണ്ട് സ്ഥിരമായിരിക്കും അത് IS എന്നതിന് തുല്യമായിരിക്കും യഥാർത്ഥത്തിൽ ഇതാണ് ISനെ സാച്ചുറേഷൻ കറന്റ് അല്ലെങ്കിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം ഇപ്പോൾ VD പൂജ്യത്തിന് തുല്യമാകുമ്പോൾ ഈ സംഖ്യ ഒന്നാണ് ID പൂജ്യത്തിന് തുല്യമായിരിക്കും അതിനാൽ VD പൂജ്യമാകുമ്പോൾ ഈ ID പൂജ്യമായിരിക്കും എന്നാണ് VD പോസിറ്റീവ് ആകുന്നതിനനുസരിച്ച് ഈ എക്സ്പോണൻഷ്യൽ VD യ്ക്കൊപ്പം അതിവേഗം വളരുന്നു കൂടാതെ കറന്റ് കുത്തനെ വർദ്ധിക്കുന്നു ഇതുപോലെ ഒന്ന് അതിനാൽ VD പൂജ്യത്തേക്കാൾ വലുതായ ഈ പ്രദേശത്തിന് കാര്യമായ വൈദ്യുതധാരകൾ ഒഴുകാം ഇത് ഫോർവേഡ് ബയസ് എന്നറിയപ്പെടുന്നു കൂടാതെ VD പൂജ്യത്തേക്കാൾ കുറവാണ് കറന്റ് വളരെ ചെറുതാണ് 10 15 A ആണ് IS ന്റെ സാധാരണ മൂല്യം ഞാൻ നിങ്ങൾക്ക് നൽകിയതെന്ന് ഞങ്ങൾ കണ്ടു അതിനാൽ ഇത് വളരെ ചെറുതും അതിന്റെ കേവല മൂല്യത്തേക്കാൾ കൂടുതലുമാണ് എന്നതാണ് പ്രധാന കാര്യം VD പൂജ്യത്തേക്കാൾ കൂടുതലാകുമ്പോൾ കറന്റ് എപ്പോഴത്തേതിനേക്കാൾ വളരെ കൂടുതലാണ് VD 0 അതിനാൽ ചെറുതും വലുതുമായ വൈദ്യുതധാരകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എന്തെങ്കിലും ബന്ധപ്പെടുത്തണം റിവേഴ്സ് ബയസ് കറന്റുകൾ ഫോർവേഡ് ബയസ് കറന്റുകളേക്കാൾ വളരെ ചെറുതാണ് എന്നതാണ് ഇത് റിവേഴ്സ് ബയസ് ആണ് 0 ന് തുല്യമായ VD ക്ക് ID 0 ന് തുല്യമായിരിക്കും വാസ്തവത്തിൽ നിഷ്ക്രിയത്വത്തിന് ആവശ്യമായ അവസ്ഥ ഇതാണ് റെസിസ്റ്റർ സ്വഭാവം ഇതുപോലെയായിരിക്കുമെന്ന് തീർച്ചയായും നമുക്കറിയാം അത് ഒറിജിനിലൂടെ കടന്നുപോകുന്ന ഒരു നേർരേഖയായിരിക്കുമെന്നും അതിന് ചാലകതയുടെ ചരിവുകളോ റെസിസ്റ്റൻസ്ന്റെ റേസിപ്രോക്കൽ ഉണ്ടായിരിക്കുമെന്നും അത് നിഷ്ക്രിയവുമാണ് നിങ്ങളുടെ അടിസ്ഥാന ഇലക്ട്രിക്കൽ സർക്യൂട്ട് കോഴ്സുകളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം ഒരു പോർട്ടിന്റെയോ രണ്ട് ടെർമിനൽ എലമെന്റിന്റെയോ ID സ്വഭാവം ആദ്യത്തെയോ മൂന്നാമത്തെയോ ക്വാഡ്രന്റിലാണെങ്കിൽ അത് വിഘടിപ്പിക്കുന്ന വൈദ്യുതിയോർജ്ജം ആണ് കാരണം v സമയം പോസിറ്റീവ് ആണ് ഇവിടെ ആദ്യ ക്വാഡ്രന്റിൽ v ഉം i ഉം പോസിറ്റീവ് ആണ് മൂന്നാമത്തെ ക്വാഡ്രന്റിൽ v ഉം i ഉം നെഗറ്റീവ് ആണ് അതിനാൽ ഇവ രണ്ടിലും അത് വിഘടിപ്പിക്കുന്ന വൈദ്യുതിയോർജ്ജം ആയിരിക്കും ഈ ക്വാഡ്രന്റുകളിൽ രണ്ടാമത്തെയും നാലാമത്തെയും ക്വാഡ്രന്റുകൾ v തവണ i നെഗറ്റീവ് ആകുകയും മൂലകം ഊർജ്ജം സൃഷ്ടിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് ഒരു നിഷ്ക്രിയ ഘടകമുണ്ടെങ്കിൽ രണ്ടാമത്തെയോ നാലാമത്തെയോ ക്വാഡ്രന്റുകളിൽ അതിന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗവും ഉണ്ടായിരിക്കില്ല അതിനാൽ നിഷ്ക്രിയ മൂലകം അർത്ഥമാക്കുന്നത് ഒന്നാമത്തെയും മൂന്നാമത്തെയും ക്വാഡ്രാന്റുകളിലെ മാത്രം സ്വഭാവമാണ് തീർച്ചയായും ഇത് ഒറിജിനിലൂടെ കടന്നുപോകേണ്ടതുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു അതിനാൽ ഇപ്പോൾ ഇത് ഒരു ഡയോഡിനാണ് ചുരുക്കത്തിൽ ഡയോഡിന് റിവേഴ്സ് ബയസിൽ വളരെ ചെറിയ കറന്റ് ഉണ്ട് അതായത് ഡയോഡ് വോൾട്ടേജ് പൂജ്യത്തേക്കാൾ ചെറുതായിരിക്കുമ്പോൾ ഡയോഡ് വോൾട്ടേജ് നിർദ്ദിഷ്ട പോളാരിറ്റി ഉപയോഗിച്ച് നിർവ്വചിച്ചിരിക്കുന്നതും ഡയോഡിന്റെ ചിഹ്നം അസമമായതുമാണ് അതിനാൽ മുന്നോട്ട് വിപരീത പക്ഷപാതം കണ്ടെത്തുമ്പോൾ അത് മനസ്സിൽ വയ്ക്കുക അത് ഫോർവേഡ് ബയസിൽ ആയിരിക്കുമ്പോൾ അതിന് കാര്യമായ പ്രവാഹങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ തീർച്ചയായും പൊതുവേ രേഖീയമല്ലാത്ത മൂലകത്തിന് അനിയന്ത്രിതമായ സ്വഭാവസവിശേഷതകൾ ഉണ്ടാകാം പക്ഷേ അത് ഒരു നിഷ്ക്രിയ രേഖീയ ഘടകമാണെങ്കിൽ അത് ഉത്ഭവത്തിലൂടെ കടന്നുപോകാൻ പോകുന്ന സ്വഭാവസവിശേഷതകൾ ഉണ്ടായിരിക്കും അത് ഒന്നും തന്നെ ആകാം ചില പൊതുവായ f അതിനാൽ ഇത് ടു ടെർമിനൽ നോൺലീനിയർ എലമെന്റിന്റെ ഒരു ആമുഖം മാത്രമാണ് ഞങ്ങൾ സ്വഭാവം കണ്ടു നമുക്ക് അതിനെ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ച് വിവരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാം